ഇതിനു മുൻപത്തെ രണ്ടു ക്ലാസ്സുകളിൽ നമ്മൾ ഹൈസെൻബെർഗിന്റെ ക്വാണ്ടം മെക്കാനിക്സ് രൂപീകരണത്തെ കുറിച്ച് പഠിച്ചു ഇവിടെ നമ്മൾ മനസിലാക്കിയ രണ്ടു കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ x v അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ലഭിക്കുന്ന മറ്റു ക്വാണ്ടിറ്റികൾ നമ്പറുകളുടെ ശേഖരമായാണ് പ്രകടിപ്പിക്കേണ്ടത് നമുക്കിപ്പോൾ അറിയാം നമ്പറുകളുടെ ഇത്തരം ശേഖരത്തിനെ മെട്രിക്സ് എന്നാണ് വിളിക്കുന്നതെന്ന് ഉദാഹരണമായി x യെ നമുക്ക് ഇപ്രകാരം കാണിക്കാം

ഏതെങ്കിലും ക്വാണ്ടിറ്റി ടൈം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതായത് അത് ടൈമിനനുസരിച്ച് വ്യത്യാസമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ മെട്രിക്സ് രീതിയിൽ എഴുതുമ്പോൾ അതിന്റെ ഡയഗണൽ അല്ലാത്ത എല്ലാ പദങ്ങളും അതായത് ei12t ei13t ei21 t തുടങ്ങിയവ അടങ്ങിയിരിക്കുന്ന പദങ്ങൾ 0 ആയിരിക്കും അതായത് നമുക്ക് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും ലഭിക്കുന്നത് ഒരു കാര്യം കൂടെ ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇവിടെ 12 21ആയിരിക്കും അതായത് ħ h2 ആണ് ഇത്രയുമാണ് നമ്മൾ ക്വാണ്ടം തിയറി യിലെ കൈനമാറ്റിക് ക്വാണ്ടിറ്റി കളെക്കുറിച്ച് പഠിച്ചത് ഇതോടൊപ്പം നമ്മൾ ക്വാണ്ടം കണ്ടീഷൻ കൂടെ കണ്ടുപിടിച്ചു ഇതനുസരിച്ച് 2m πα ∞nαn|Cnαn |2 nn α|Cnn α |2h എന്ന് ലഭിച്ചു ഇതിനെ നമ്മൾ 4πmα ∞nαn|Cnαn |2hഎന്ന രൂപത്തിൽ മാറ്റി എഴുതി ആദ്യം എഴുതിയ ഇക്വേഷൻ mα ∞nαn|Cnαn |2 nn α|Cnn α |2ħ എന്നും എഴുതാവുന്നതാണ് ഇവയെല്ലാം തുല്യമാണ് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപായി ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നേരത്തെ കാണിച്ച ഇക്വേഷൻ ലഭിക്കാനായി എടുത്ത കണ്ടീഷൻ Cnn Cnn എന്നും Cnn α Cn αn എന്നുമാണ് ഇതെല്ലാം കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നതു കൊണ്ടുതന്നെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാം നമ്മൾ എടുത്തിരിക്കുന്നത് CC എന്നാണ് അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം C എന്നത് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് Cnn ആണെങ്കിൽ C എന്നത് Cn τn ആണോ അതോ Cnnഎന്നാണോ എന്നാണ് ഇതാണ് ചോദ്യം ഇതിനുള്ള ഉത്തരം തന്നെയാണ് ഞാൻ നേരത്തെ സ്ക്രീനിൽ ബ്ലൂ നിറത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എടുത്തതിനു കാരണമെന്തെന്ന് നോക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ C എന്നത് ഫ്രീക്വൻസി τω യുമായി ബന്ധപ്പെട്ടതും C എന്നത് ഫ്രീക്വൻസി τωയുമായി ബന്ധപ്പെട്ടതും ആണെന്ന് മാത്രമല്ല ക്വാണ്ടം മെക്കാനിക്സിൽ അതുപോലെ തന്നെ അപ്പോൾ τ യ്ക്ക് ശരിയായ കോയെഫിഷ്യന്റ് En τ En തന്നെയാണ് അല്ലാതെ En Enτ അല്ല അതായത് ഇവിടെ യോജിച്ച C കോയെഫിഷ്യന്റ് Cn τn ആണ് അല്ലാതെ Cnnτ ഇത്രയും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഡയനാമിക് കണ്ടീഷനുകൾ എഴുതുകയാണ് ഹൈസെൻബെർഗ് മുന്നോട്ടു വെച്ച ആശയമാനുസരിച്ച് x ലഭിക്കാനുള്ള ചലന നിയമവും ക്ലാസിക്കൽ ചലന സമവാക്യവും ഒന്ന് തന്നെ ആണ് അതിനർത്ഥം ഇവിടെയുള്ള ഒരേ ഒരു വ്യത്യാസം ഓരോ x ഉം Fxഉം ഇപ്പോൾ മെട്രിക്സ് ഉപയോഗിച്ചാണ് കാണേണ്ടത് എന്നുള്ളതാണ് എന്നിട്ടു വേണം പ്രോബ്ളത്തിന് സൊല്യൂഷൻ കാണുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹൈസെൻബെർഗ് രീതി ഹാർമോണിക് ഓസിലിലേറ്റർ ൽ പ്രയോഗിക്കുക എന്നതാണ് ഇതും ഹൈസെൻബെർഗ് തന്റെ പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഹൈസെൻബെർഗ് ഇതിനായി ഒരു അൻഹർമോണിക് ഓസിലേറ്റർ ആണ് എടുത്തത് ഒരു അൻഹർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ പ്രോഡക്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ അൻഹർമോണിക് ഓസിലേറ്റർ എടുത്തിരിക്കുന്നത് ഈ ഇക്വേഷനിൽ x2 വരുന്നതുകൊണ്ട് പ്രോഡക്റ്റ് കണ്ടീഷൻ ഇവിടെ പ്രയോഗിക്കാം നമ്മൾ ഇവിടെ അൻഹർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഒഴിവാക്കാനായി മറ്റൊരു രീതിയാണ് അവലംബിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിൽ നിന്നുമുള്ള റിസൾട്ട് കടമെടുക്കുകയാണ് അതായത് അവിടെ കിട്ടിയ Δn ഞാനിവിടെ ഉപയോഗിക്കുകയാണ് അവിടെ നമ്മൾ തെളിയിച്ചിരുന്നു Δn ന്റെ മാക്സിമം വാല്യൂ 1 ആണെന്ന് അൻഹർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷനിൽ നിന്നും ഫ്രീക്വൻസി യ്ക്ക് ഏറ്റവും കുറഞ്ഞ ഓർഡർ ട്രാൻസിഷൻ അതായത് Δn 1 മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് തെളിയിക്കാൻ ഹൈസെൻബെർഗിന് സാധിച്ചു നമ്മൾ ഈ റിസൾട്ട് ഇവിടെ അനുമാനിക്കാൻ പോവുകയാണ് ഇങ്ങനെ അനുമാനിക്കുന്നതിന്റെ അടിസ്ഥാനം കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിൽ നിന്നും ഈ റിസൾട്ട് നമ്മൾ കടമെടുക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഘട്ടം ഘട്ടമായി ഇത് ഇവിടെ എഴുതാം x എന്നത് Cnn 1 അല്ലെങ്കിൽ Cnn1 ഇതിനോടനുബന്ധ ഫ്രീക്വൻസി nn 1 അല്ലെങ്കിൽ nn1 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ചേർത്ത് നമുക്ക് പ്രതിനിധാനം ചെയ്യാം Δn ന്റെ മാക്സിമം വാല്യൂ 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ടൈമുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസം കാണിക്കാൻ Cnn 1einn 1tഅല്ലെങ്കിൽ Cnn1einn1t എന്നാണ് എടുത്തിരിക്കുന്നത് 2 ചലനവുമായി ബന്ധപ്പെട്ട ഇക്വേഷനുകൾ ക്ലാസിക്കൽ ഇക്വേഷനുകൾ തന്നെയാണ് ഇതനുസരിച്ച് ഇതിൽ നമ്മൾ x ന്റെ സബ്സ്റ്റിട്യൂഷൻ ചെയ്യുകയാണ് അപ്പോൾ ലഭിക്കുന്നത് ഇതിൽ നിന്നും nn 10 ഇതേപോലെ ഇതിൽ നിന്നും nn1 0 ഇവിടെ നെഗറ്റീവ് സൈൻ കൂടെ ഇടുന്നുണ്ട് കാരണം നേരത്തെ കിട്ടിയ ഫ്രീക്വൻസി ഉയർന്ന ലെവലിൽ നിന്നും താഴ്ന്ന ലെവലിലേക്ക് ഉള്ള ട്രാൻസിഷൻ കാണിക്കുന്നതാണ് അതുകൊണ്ടു പോസിറ്റീവ് ആയി കാണിക്കുന്നു എന്നാൽ ഇത് താഴ്ന്ന ലെവലിൽ നിന്നും ഉയർന്ന ലെവലിലേക്ക് ഉള്ള ട്രാൻസിഷൻ ആണ് അതിനാൽ നെഗറ്റീവ് സൈൻ ഇടണം ക്ലാസിക്കൽ ഇക്വേഷനിൽ നിന്നും ഇത്രയും മനസിലായി കഴിഞ്ഞാൽ ക്വാണ്ടം കണ്ടീഷൻ ഇവിടെ ഉപയോഗിക്കാം

ഇവിടെ കിട്ടിയിരിക്കുന്ന ക്വാണ്ടം കണ്ടീഷനിൽ നിന്നും Cnn1ലഭിക്കും ഇവിടെ ഞാൻ |Cnn1 |2|Cn1n |2 എന്നും |Cnn 1 |2|Cn 1n |2 എന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്വാണ്ടം കണ്ടീഷൻ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4πm 0|Cn1n |2 |Cnn 1 |2h അഥവാ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് നേരിട്ട് തന്നെ ലഭിക്കുന്നതാണ്

ക്വാണ്ടം കണ്ടീഷനിൽ കൂടി തന്നെ കോൺസ്റ്റന്റ് കാണണമെന്നാണ് ഹൈസെൻബെർഗ് നിർദ്ദേശിക്കുന്നത് ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ മാറ്റി എഴുതാവുന്നതാണ്

അടുത്തതായി നമുക്ക് അല്പം ഫിസിക്സ് ഇവിടെ പ്രയോഗിക്കാം ഫിസിക്സ് അനുസരിച്ച് ഗ്രൌണ്ട് ലെവലിൽ നിന്നും അതായത് n 0 ലെവലിൽ നിന്നും താഴോട്ടേക്ക് ട്രാൻസിഷനുകൾ സംഭവിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം Cn0n 10 എന്നാണ് അപ്പോൾ ഇക്വേഷൻ അനുസരിച്ച് constant 0 എന്ന് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ഇക്വേഷൻ എന്നെടുത്തു ഈ ക്ലാസിക്കൽ ഇക്വേഷനിൽ നിന്ന് ആരംഭിച്ച് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇവയൊക്കെയാണ് എല്ലാ n വാല്യൂവിനും nn 10 nn1 0 ക്വാണ്ടം കണ്ടീഷൻ ഇതിൽ പ്രയോഗിച്ച് എന്ന റിസൾട്ട് ലഭിച്ചു അടുത്തതായി സിസ്റ്റത്തിന്റെ എനർജി കാണാം അതായത് ട്രാൻസിഷൻ മെട്രിക്സിലുള്ള എനർജിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ കാണാം ഒരു സിസ്റ്റത്തിലെ ആകെ എനർജി എപ്പോഴും മാറ്റം വരാത്തതായതുകൊണ്ട് അഥവാ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ എനർജി മെട്രിക്സിന്റെ ഡയഗണൽ ആയി വരുന്ന ഘടകങ്ങൾ മാത്രമാണ് 0 അല്ലാതെ വരുന്നത് കാരണം ഡയഗണൽ അല്ലാത്ത ഘടകങ്ങളിൽ eiωtവരുന്നതുകൊണ്ട് ടൈമിനനുസരിച്ച് ഇതിന്റെ മൂല്യം മാറും അതായത് കോൺസ്റ്റന്റ് ആവില്ല അതുകൊണ്ടു തന്നെ ഡയഗണൽ ഘടകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആയിരിക്കും nth ലെവലിന്റെ എനർജി ഇവിടെ കിട്ടിയ nth ലെവലിന്റെ എനർജിയെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ രീതിയിൽ ഇങ്ങനെ എഴുതാം ഇവയാണ് nth ലെവൽ എനർജി മെട്രിക്സിന്റെ ഡയഗണൽ ഘടകങ്ങളായി വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോവുന്നത് ഇവിടെ x എന്താണ് x ആണ് നമ്മൾ Cn നമ്പറുകൾ ഉപയോഗിച്ച് നേരത്തെ കാണിച്ചിരുന്നത് x2tnn എന്നത് ∑CnnCnn ആയിരിക്കുമല്ലോ അതായത് ഇത് എന്നെഴുതാം നമ്മൾ കണ്ടു nn±1 ആണെന്ന് അതുകൊണ്ടുതന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതനുസരിച്ച് ഇനി v2tnn എന്താണെന്ന് നോക്കാം

പക്ഷെ നിങ്ങൾക്കറിയാം nn nnആണെന്ന് അപ്പോൾ ഇവിടെ nn±1 എടുത്താൽ എല്ലാ nn 1 ഉം 0ആകും അപ്പോൾ ഇക്വേഷൻ ഇത് നേരത്തെ കിട്ടിയ x2 മായി താരതമ്യം ചെയ്താൽ അപ്പോൾ നമുക്ക് x2 v 2 ഇവ കിട്ടി കഴിഞ്ഞു ഇതിൽ നിന്നും എനർജി കാണാം nth ലെവൽ എനർജി ഇതിൽ ഒന്നാമത്തെ പദം 12mv2 12m02n12ħm0 രണ്ടാമത്തെ പദം 12m02x2 12mω02n12 ℏm0 അപ്പോൾ എനർജിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്ത് m ഉം ഒരു 0 യും ക്യാൻസൽ ചെയ്താൽ എനർജി അപ്പോൾ ഹൈസെൻബെർഗിന്റെ ക്വാണ്ടം മെക്കാനിക്സ് തിയറി അനുസരിച്ച് ഹാർമോണിക് ഓസിലേറ്ററിന്റെ nth ലെവൽ എനർജി ഇവിടെ n 0 എന്നെടുത്താൽ അപ്പോൾ ക്ലാസിക്കൽ തിയറിയിലോ വിൽസൺ സോമർഫെൽ ക്വാണ്ടം കണ്ടീഷണനിലോ പറയുന്നതുപോലെ ഇവിടെ ഏറ്റവും താഴെ ലെവെലിലുള്ള എനർജി 0 അല്ല ഗ്രൌണ്ട് സ്റ്റേറ്റ് എനർജി ഇവിടെ ħω0 2 ആണ് ഇതിനെയാണ് 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത് ഇവിടെയും E 0 h0 തന്നെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഫോർമുല blackbody radiation formula യിൽ നിന്ന് കിട്ടുന്നതും ഇത് തന്നെയാണ് അപ്പോൾ അതും ശരിയായി ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ ലെവൽ എനർജി അതായത് 0 പോയിന്റ് എനർജിയും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഹൈസെൻബെർഗ് ഇവിടെ ചെയ്തിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ ആശയങ്ങൾ മാത്രം ഉപയോഗിച്ച് എനർജി കാണുക എന്നതാണ് ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന എല്ലാ അളവുകളും മെട്രിക്സ് രൂപത്തിൽ എടുത്തിരിക്കുകയാണ് ക്വാണ്ടം കണ്ടീഷനുകളും ചലന നിയമങ്ങളും ഉപയോഗിച്ച് ഈ കോയെഫിഷ്യന്റുകൾ കാണാൻ സാധിക്കും അടുത്തതായി n ലെവലിൽ നിന്നും n 1 ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി റേറ്റ് കാണാം അതായത് dEdtn→n 1 ഇത് കിട്ടിയാൽ ഐൻസ്റ്റൈൻ A കോയെഫിഷ്യന്റ് Einstein's A coefficient കണ്ടുപിടിക്കാനും സാധിക്കും നേരത്തെ നമ്മൾ ഇത് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ നമുക്ക് ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ക്ലാസിക്കൽ തിയറിയിൽ n→n 1 ട്രാൻസിഷന്റെ റേറ്റ് ഓഫ് റേഡിയേഷൻ ഇവിടെ a എന്നത് ആക്സിലറേഷൻ ആണ് ഒരു പിരീഡിലുള്ള ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു nn 1 എന്നത് 0 ആണെന്ന് അപ്പോൾ അഥവാ ഇവിടെ ആംപ്ലിട്യൂഡ് എത്രയാണ് അതിനായി വീണ്ടും ക്ലാസിക്കൽ തിയറിയിലേക്ക് പോകാം x ∑Ceiωnt C റിയൽ എടുത്താൽ x 2Ccos⁡τωt ക്വാണ്ടം മെക്കാനിക്സിലെ ആശയമനുസരിച്ച് ആംപ്ലിട്യൂഡിനെ ഇങ്ങനെയെഴുതുകയാണ് Ann 1 2Cnn 1 അപ്പോൾ Ann 124|Cnn 1 |2 ഇതിൽ നേരത്തെ കണ്ടുപിടിച്ച |Cnn 1 |2 n ℏ2m0 സബ്സ്റ്റിട്യൂട് ചെയ്താൽ ഇത് നമ്മൾ dEdtnn 1 ന്റെ ഫോർമുലയിൽ സബ്സ്റ്റിട്യൂട് ചെയ്താൽ 0 ക്യാൻസൽ ചെയ്ത് ഇത് നമുക്കറിയാം ħω0 ✕ ഐൻസ്റ്റൈൻ കോയെഫിഷ്യന്റ് Ann 1 ആണെന്ന് അതായത് ഇവിടെ അപ്പോൾ ഐൻസ്റ്റൈൻ കോയെഫിഷ്യന്റ് ഇതുതന്നെയാണ് നേരത്തെ നമുക്ക് കിട്ടിയ റിസൾട്ടും അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ തിയറി ഉപയോഗിച്ച് നമ്മൾ വീണ്ടും അതെ റിസൾട്ടിലേക്കെത്തിയിരിക്കയാണ് ഹൈസെൻബെർഗ് ഹാർമോണിക് ഓസിലേറ്ററിൽ എങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് തിയറി ഉപയോഗിച്ചു എന്നുള്ള ഈ ക്ലാസ് ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഹൈസെൻബെർഗിന്റെ ക്വാണ്ടം മെക്കാനിക്സിനോടുള്ള സമീപനം നമുക്കിവിടെ സംഗ്രഹിക്കാം എല്ലാ കൈനമാറ്റിക് ക്വാണ്ടിറ്റികളെയും മെട്രിക്സ് രൂപത്തിൽ പ്രതിനിധാനം ചെയ്യുന്നു ഇത് എന്തുകൊണ്ടെന്നാൽ നിരീക്ഷിക്കാൻ സാധ്യമായ ഘടകങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലം വിശകലനം ചെയ്യുകയാണ് ടൈമിനനുസരിച്ച് മാറാത്ത ഘടകങ്ങൾ എല്ലാം തന്നെ ഡയഗണൽ മെട്രിക്സുകൾ മുഖേനയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചലന സമവാക്യങ്ങൾ എല്ലാം തന്നെ ക്ലാസിക്കൽ തിയറി അനുസരിച്ചു തന്നെ എടുത്തിരിക്കുന്നു ക്വാണ്ടം കണ്ടീഷനുകൾ മെട്രിക്സിന്റെ ഘടകങ്ങൾ മുഖേന പ്രകടിപ്പിച്ചിരുന്നു ഇത്രയുമാണ് ഹൈസെൻബെർഗിന്റെ ക്വാണ്ടം മെക്കാനിക്സിനോടുള്ള സമീപനത്തിന്റെ പ്രധാന നിഗമനങ്ങൾ ഇത് ഒരു പ്രത്യേക സിസ്റ്റത്തിന് മാത്രമായുള്ളതല്ല പൊതുവായി പറയാവുന്നതാണ് ഇവിടെ മെട്രിക് മെക്കാനിക്സ് എന്ന വളരെ പ്രധാനമായ ഒരു രീതിയിലേക്കുള്ള ഉറച്ച കാൽവെപ്പും കൂടിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൂടുതലായി പറയാം